ഹലോ ടാഗോറിന്റെ കാബൂളിവാലയിലെ യാഥാർഥ്യത്തെയും ലിംഗഭേദത്തെയും കുറിച്ചുള്ള ഈ ലെക്ച്ചറിലേക്ക് സ്വാഗതം ഈ ലെക്ച്ചറിന്റെ ലക്ഷ്യം ഇവയാണ് ഈ ആഴ്ചയിൽ ഞാൻ ഇതുവരെ നടത്തിയ ഈ ചെറുകഥ വിശകലനത്തിന്റെ എല്ലാ കഥാ തന്തുക്കളും നേടുക എന്നതാണ് രണ്ടാമതായി ഈ കഥയുടെ വിശകലനത്തിനിടയിൽ ഉന്നയിച്ച ചില സുപ്രധാന വാദങ്ങൾ ഒന്നുകൂടി നന്നായി പരിശോധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവസാനമായി ടാഗോറിന്റെ ചെറുകഥകളുടെ പശ്ചാത്തലത്തിൽ റിയലിസത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവസാനമായി ഈ പ്രത്യേക ചെറുകഥയിലെ ലിംഗഭേദവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു ടാഗോർ തന്റെ ചെറുകഥകളിൽ റിയലിസത്തെക്കുറിച്ച് വളരെ രസകരമായ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട് അവ റിയലിസ്റ്റിക് എന്നതിനേക്കാൾ ഭാവഗാനങ്ങൾ പോലെയാണെന്ന് നിരൂപകർ അഭിപ്രായപ്പെടുമ്പോൾ ടാഗോറിന് ഈ അഭിപ്രായം പറയാനുണ്ട് അദ്ദേഹം പറയുന്നു "എന്റെ ചെറുകഥകൾ ആകർഷകമായ ഗാനങ്ങളാണെന്ന് നിങ്ങൾ പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുന്നു ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്ന് ഊന്നിപ്പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവയിൽ ഒരിക്കലും യാഥാർത്ഥ്യത്തിന്റെ ആവശ്യമില്ലെന്ന് ഊന്നിപ്പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ കണ്ടതും ആഴത്തിൽ അനുഭവിച്ചതും നേരിട്ട് അനുഭവിച്ചതും ഞാൻ എഴുതിയിട്ടുണ്ട് അതിനാൽ നമുക്ക് ഇവിടെ ഒരു നല്ല കോൺട്രാസ്റ്റ് ബിൽഡിംഗ് കാണാൻ കഴിയും ഗാനരചനകൾ തമ്മിലുള്ള വ്യത്യാസം ഗാനരചനയും റിയലിസവും തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഗാനരചയിതാവ് എന്നതിനർത്ഥം വളരെ യാഥാർത്ഥ്യബോധമുള്ളവനായിരിക്കുക എന്നല്ല അതിനാൽ തന്റെ ചെറുകഥകൾ ഗാനരചയിതാവിനേക്കാൾ യാഥാർത്ഥ്യബോധമുള്ളതാണെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നു കൂടാതെ തന്റെ ഫിക്ഷനിൽ എഴുതിയതെല്ലാം മനുഷ്യപ്രകൃതിയെക്കുറിച്ചുള്ള തന്റെ നിരീക്ഷണത്തിലൂടെ ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു അതിനാൽ ടാഗോറിന്റെ ചെറുകഥകളുടെ പശ്ചാത്തലത്തിൽ ഇത് വളരെ രസകരമായ അവകാശവാദമാണ് അദ്ദേഹം തുടർന്നു പറയുന്നു നിങ്ങൾ ചിന്തിച്ചാൽ ബംഗാളി കുടുംബങ്ങളുടെ യഥാർത്ഥ ചിത്രം എന്റെ ചെറുകഥകളിലെ കലാപരവും ആധികാരികവുമായ പ്രതിനിധാനങ്ങളാണെന്ന് നിങ്ങൾ കാണും മധ്യവർഗങ്ങൾ പ്രത്യേകിച്ച് ബംഗാളി മധ്യവർഗങ്ങൾ തന്റെ ചെറുകഥകളിൽ വേണ്ടത്ര പ്രതിനിധീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം വലിയ അവകാശവാദം ഉന്നയിക്കുന്നു തന്റെ ചെറുകഥകളിൽ ബംഗാളി കുടുംബങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആദ്യ വ്യക്തി എന്ന അർത്ഥത്തിൽ അദ്ദേഹം സ്രഷ്ടാവ് ആണെന്ന് തോന്നുന്നു ടാഗോറിന്റെ ഈ അവകാശവാദങ്ങളെ അദ്ദേഹത്തിന്റെ ഫിക്ഷനെക്കുറിച്ച് എഴുതിയ ചില വിമർശനങ്ങൾക്കൊപ്പം ചേർത്താൽ വളരെ രസകരമായ ചില നിരീക്ഷണങ്ങൾ നമുക്ക് ലഭിക്കും അത്തരത്തിലുള്ള ഒരു നിരൂപകൻ പരാമർശിക്കുന്നത് വലിയ കഥകൾ മധ്യവർഗങ്ങളുടെ ജീവിതത്തെ കേന്ദ്രീകരിക്കുന്നു എന്നാണ് ടാഗോർ നേരത്തെ പറഞ്ഞ ആ അഭിപ്രായത്തിലേക്ക് തിരിച്ചുപോകുകയാണെങ്കിൽ ബംഗാളി കുടുംബങ്ങളെ മൊത്തത്തിൽ പിടിച്ചടക്കിയതായി അദ്ദേഹം പറയുന്നു എന്നാൽ ഇവിടെ ടാഗോർ തന്റെ ഫിക്ഷനിൽ പ്രതിനിധീകരിച്ചത് മധ്യവർഗങ്ങളെയാണെന്ന് സൂചിപ്പിക്കുന്ന മറ്റൊരു വിമർശകനുണ്ട് അതിനാൽ ധാരാളം ചെറുകഥകൾ ഇടത്തരക്കാരുടെ ജീവിതം അവരുടെ സങ്കീർണ്ണതകൾ ഭാവങ്ങൾ എന്നിവയെ കേന്ദ്രീകരിക്കുന്നു എന്നാൽ ഇത് സ്ത്രീകളാണ് പ്രത്യേകിച്ച് കഷ്ടപ്പെടുന്ന സ്ത്രീകൾ അമ്മമാർ ഭാര്യമാർ സഹോദരിമാർ പെൺമക്കൾ അവരാണ് ക്യാൻവാസിന്റെ മധ്യഭാഗത്തുള്ളവർ കാബൂളിവാലയുടെ പശ്ചാത്തലത്തിൽ ഈ നിരീക്ഷണം എങ്ങനെ യാഥാർത്ഥ്യമാകുമെന്ന് നോക്കാം കാബൂളിവാലയിലെ എന്റെ മുൻ സെഷനുകളിൽ ഞാൻ മിനിയുടെ അമ്മ എന്ന കഥാപാത്രത്തെ സ്പർശിച്ചു ചെറുകഥയെക്കുറിച്ചുള്ള നമ്മുടെ വിശകലനം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മിനിയുടെ അമ്മയുടെ ഈ പ്രതിനിധാനത്തിലേക്ക് ഒരിക്കൽ കൂടി നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവൾ കഥയുടെ ആഖ്യാതാവായ എഴുത്തുകാരന്റെ ഭാര്യയാണ് അവൾ മിനിയുടെ അമ്മ കൂടിയാണ് എന്നാൽ അവൾ ഈ കൊച്ചു പെൺകുട്ടി മിനിയുടെ ജൈവിക അമ്മയാണോ എന്നതിൽ വായനക്കാരുടെ മനസ്സിൽ ഒരു ചെറിയ സംശയം ഉണ്ട് ആ സംശയം നമ്മുടെ മനസ്സിൽ അതായത് വായനക്കാരുടെ മനസ്സിൽ രചയിതാവ് ആഖ്യാതാവ് തന്നെ സ്ഥാപിച്ചു കഥയുടെ തുടക്കത്തിൽ തന്നെ അമ്മ നിങ്ങൾക്ക് ആരാണ് എന്ന നിഷ്കളങ്കമായ ഈ ചോദ്യം മിനി ചോദിക്കുന്നത് ഓർക്കുകയാണെങ്കിൽ അവൾ ഭാര്യാസഹോദരിയാണെന്ന് അവൻ മനസ്സിൽ പ്രതിഫലിപ്പിക്കുന്നു പക്ഷേ അദ്ദേഹം അത് തന്റെ ചെറിയ മകളോട് പറഞ്ഞില്ല അദ്ദേഹം അവളോട് പുറത്ത് പോയി ബോലയുമായി കളിക്കാൻ പറയുന്നു ഇപ്പോഴത്തെ ഭാര്യയും മിനിയുടെ അമ്മയുമായ ഇവർ ഒരു കാലത്ത് മിനിയുടെ അച്ഛന്റെ ഭാര്യാ സഹോദരിയായിരുന്നുവെന്ന് നമുക്കറിയാം അതിനാൽ ഇത് ഭാര്യാസഹോദരിയാണ് ആദ്യ ഭാര്യ മരിച്ചുവെന്ന് നമുക്ക് അനുമാനിക്കാം കഥയുടെ എഴുത്തുകാരനെയും ആഖ്യാതാവിനെയും സംബന്ധിച്ചിടത്തോളം അവൾ ആ കൃത്യത അനുമാനിച്ചു അതിനാൽ ഈ രസകരമായ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ അവൾ വളരെ രസകരമായ ഒരു സ്ഥാനം വഹിക്കുന്നു ഒരു പിതാവും മകളും അമ്മയും അവൾ ഒരു പരിമിതമായ പദവി വഹിക്കുന്നു അവൾ ഭാര്യയാണ് അതുപോലെ തന്നെ അവൾ ഒരിക്കൽ ഭാര്യാ സഹോദരിയും ആയിരുന്നു അതിനാൽ പിതാവിന്റെ ഭാര്യ എഴുത്തുകാരന്റെ ഭാര്യ കഥയിലെ ആഖ്യാതാവ് എന്നിവരെ തിരിച്ചറിയുന്നതിൽ ഈ അവ്യക്തത വളരെ രസകരമാണ് അവൾ പ്രത്യക്ഷത്തിൽ ചെറുപ്പമാണ് എഴുത്തുകാരന്റെ ഈ ഭാര്യ പൊതുമണ്ഡലത്തെ അവൾ വളരെ ഭയപ്പെടുന്നു ഈ കഥയുടെ ഒരു ഘട്ടത്തിൽ തെരുവിലെ കച്ചവടക്കാർ മുതൽ മദ്യപാനികൾ യൂറോപ്യൻ പട്ടാളക്കാർ വരെ ഈ ലോകത്ത് തന്റെ ഭാര്യ ഭയപ്പെടുന്ന നിരവധി കാര്യങ്ങൾ എഴുത്തുകാരൻ പരാമർശിക്കുന്നത് കാണാം അതിനാൽ ഈ യുവഭാര്യയെ ഭയപ്പെടുത്താൻ കഴിയുന്ന നിരവധി കാര്യങ്ങൾ ഉണ്ട് ഈ ചെറുപ്പക്കാരിയായ ഭാര്യയെക്കുറിച്ചോ മിനിയുടെ അമ്മയെക്കുറിച്ചോ ശ്രദ്ധിക്കേണ്ട മറ്റൊരു രസകരമായ കാര്യം അവൾ മകളെ നിരന്തരം ശാസിക്കുന്നു എന്നതാണ് അവൾക്ക് കാബൂളിവാലയെ ഭയങ്കര സംശയമാണെന്നും നമ്മൾ ശ്രദ്ധിച്ചു അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഈ മനുഷ്യൻ ഒരു ദിവസം തന്റെ മകളെ കൊണ്ടുപോകുമെന്ന് അവൾ ഭയപ്പെടുന്നു അതിനാൽ ഈ കാര്യങ്ങളെല്ലാം യുവ ഭാര്യമിനിയുടെ അമ്മയെക്കുറിച്ച് വളരെ ശ്രദ്ധേയമാണ് എന്നാൽ കഥയിൽ പരാമർശിക്കാത്തതും വളരെ രസകരവുമായ കാര്യം മിനിയോടുള്ള അവളുടെ പ്രണയം വിവരിച്ചിട്ടില്ല അത് വിവരിച്ചിട്ടില്ല എഴുത്തുകാരൻ പരാമർശിച്ചിട്ടില്ല ഈ കഥയുടെ എഴുത്തുകാരനും ആഖ്യാതാവും പരാമർശിച്ചിട്ടില്ല ഈ വിവരണത്തിനുള്ളിലെ അവളുടെ സ്ഥാനത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ആ അഭാവം പ്രത്യേകിച്ചും ശ്രദ്ധേയമാണ് കഥയിലെ ഒരു ഉദ്ധരണിയുടെ വളരെ രസകരമായ ഒരു വിശകലനം ഞാൻ നിങ്ങൾക്ക് നൽകാം നമുക്ക് ഈ വിപുലമായ ഉദ്ധരണി നോക്കാം കാരണം പിതാവിനെ സംബന്ധിച്ചും ഭാര്യയുമായുള്ള ബന്ധത്തെക്കുറിച്ചും കാബൂളിവാലയെ കുറിച്ചും രസകരമായ നിരവധി വിവരങ്ങൾ നൽകുന്നു അതുകൊണ്ട് അച്ഛൻ പറയുന്നു "അഞ്ചുവർഷത്തെ അവളുടെ ചെറിയ ജീവിതത്തിൽ അവളുടെ പിതാവിനെയല്ലാതെ ഒരു ശ്രോതാവിനെ മുമ്പ് മിനി കണ്ടെത്തിയിട്ടില്ല " അതിനാൽ ഈ കൊച്ചു പെൺകുട്ടിയുടെ ശ്രദ്ധ ആകർഷിക്കാൻ വന്ന കാബൂളിവാലയെക്കുറിച്ച് ഇവിടെ ഒരു പരാമർശമുണ്ട് ആ വസ്തുതയിൽ പിതാവ് അത്ഭുതപ്പെടുന്നു കാരണം ഇതുവരെ ഈ കൊച്ചു പെൺകുട്ടിയുടെ ശ്രദ്ധ മുഴുവൻ ആകർഷിച്ചത് അച്ഛനായിരുന്നു ഇപ്പോൾ അവളുടെ ജീവിതത്തിലെ അവളുടെ ശ്രദ്ധയിൽ ആ സ്ഥാനം വഹിക്കുന്ന പുതിയ ആളാണ് കാബൂളിവാല "അവളുടെ ചെറിയ സാരിയുടെ അറ്റത്ത് ധാരാളം അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കെട്ടിയിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു ഇത് കണ്ടെത്തിയപ്പോൾ ഞാൻ കാബൂളിവാലയോട് ചോദിച്ചു എന്തിനാണ് ഇവൾക്ക് ഇതെല്ലാം നൽകിയത് ദയവായി ഇത് വീണ്ടും ചെയ്യരുത് അതോടെ ഞാൻ ഒരു അര രൂപ നാണയം എടുത്ത് അവനു കൊടുത്തു കാബൂളിവാല ഒരു മടിയും കൂടാതെ പണം എടുത്ത് തന്റെ ബാഗിൽ ഇട്ടു അതിനാൽ ആ ഇടപാടിൽ നിന്ന് ഒരു നേട്ടവും സാമ്പത്തിക നേട്ടവും ലഭിക്കാതെയാണ് കാബൂളിവാല ഉണക്കമുന്തിരിയും പരിപ്പും വാഗ്ദാനം ചെയ്യുന്നതെന്ന് ഈ സംഭവം നമ്മോട് പറയുന്ന ഒന്നാണ് അയാൾക്ക് ലഭിക്കുന്നത് മിനിയുടെ ഹൃദയമാണ് കാരണം കാബൂളിവാലയും പെൺകുട്ടിയും തമ്മിൽ നടക്കുന്ന ഈ ഇടപാടിലൂടെ വളരെ ശക്തമായ ഒരു ബന്ധമുണ്ട് പണം ലഭിക്കാതെ വ്യാപാരി അവൾക്ക് പരിപ്പും ഉണക്കമുന്തിരിയും വാഗ്ദാനം ചെയ്തതിൽ പിതാവ് തൃപ്തനല്ല അയാൾക്ക് ഒരു അര രൂപ നാണയം നൽകി നഷ്ടപരിഹാരം നൽകുന്നു ഇപ്പോൾ നമ്മൾ മുമ്പത്തെ സ്ലൈഡിലേക്ക് മടങ്ങുകയാണെങ്കിൽ ഈ ഉദ്ദിഷ്ട ശ്രോതാവിനെക്കുറിച്ചുള്ള ഈ പരാമർശം ഇതാണ് ഈ പ്രസ്താവന സൂചിപ്പിക്കുന്നത് അവളുടെ ജീവിതകാലം മുഴുവൻ മിനിയുടെ സംസാരത്തിലും സംഭാഷണത്തിലും ഏറ്റവും ശ്രദ്ധയുള്ള അല്ലെങ്കിൽ ശ്രദ്ധയോടെ ശ്രവിച്ചത് പിതാവായിരുന്നു എന്നാണ് അപ്പോൾ ചോദ്യം വ്യക്തമാണ് അവളുടെ അമ്മ അവളുടെ അച്ഛനെപ്പോലെ ശ്രദ്ധയോടെ കേൾക്കുന്നവളായിരുന്നില്ലേ അത് ചോദിക്കാൻ വളരെ രസകരമായ ഒരു സംഗതിയാണ് കാരണം സാധാരണയായി അമ്മമാർ ചെറിയ കുട്ടികളോട് പ്രത്യേകിച്ച് ഇന്ത്യൻ സാഹചര്യത്തിൽ ചെറിയ പെൺകുട്ടികളോട് വളരെ അടുപ്പമുള്ളവരാണ് അങ്ങനെയെങ്കിൽ അമ്മ എന്തുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ശ്രവിക്കുന്നില്ല അല്ലെങ്കിൽ അമ്മ ശ്രദ്ധയോടെ കേൾക്കുന്ന വസ്തുത അച്ഛൻ അംഗീകരിക്കുന്നില്ല എന്നത് ഒരു ചോദ്യമാണ് അതുകൊണ്ട് ആ പ്രസ്താവന വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉയരുന്ന ചില ചോദ്യങ്ങളാണിവ ഞാൻ കാബൂളിവാലയോട് ചോദിച്ചു "നീ എന്തിനാണ് ഇവൾക്ക് ഇതെല്ലാം നൽകിയത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതെല്ലാം അവൾക്ക് നൽകിയതെന്ന് പിതാവ് വ്യാപാരിയോട് ചോദിക്കുന്നു തനിക്ക് ഒരു ചെറിയ കുട്ടിയുണ്ടെന്ന് കാബൂളിവാല പിതാവിനോടും വായനക്കാരോടും പറയുമ്പോൾ രസകരമായ ആ ചോദ്യത്തിനുള്ള ഉത്തരം കഥയുടെ അവസാനം നമുക്ക് നൽകുന്നു അത് ചെറിയ പെൺകുട്ടിയെക്കുറിച്ചുള്ള ഓർമ്മകൾ കാരണം അവൻ എഴുത്തുകാരന്റെ വീട് സന്ദർശിക്കാൻ വരികയും കൊച്ചുകുട്ടിയുമായി ഈ സൌഹൃദ സല്ലാപങ്ങളോ സംഭാഷണങ്ങളോ നടത്തുകയും ചെയ്യുന്നു അതിനാൽ ഈ ഭാഗത്തിന് രസകരവും പ്രധാനപ്പെട്ടതുമായ വിവരങ്ങൾ ഉണ്ട് അത് കഥയുടെ പിന്നീടുള്ള ഘട്ടങ്ങളിലും പ്രതിധ്വനിക്കും ഇനി നമുക്ക് ആ ഉദ്ധരണിയിൽ തുടരാം പെൺകുട്ടിക്ക് നൽകിയ ഉണക്കമുന്തിരിക്കും പരിപ്പിനുമായി കാബൂളിവാലയ്ക്ക് അച്ഛൻ കുറച്ച് പണം നൽകി ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് "വീട്ടിലേക്ക് മടങ്ങുമ്പോൾ നാണയത്തെച്ചൊല്ലി ഒരു കോലാഹലമുണ്ടാക്കുന്നു വെളുത്തതും വൃത്താകൃതിയിലുള്ളതും തിളങ്ങുന്നതുമായ നാണയം അവൾ കൈയിൽ പിടിച്ചതായി ഞാൻ കണ്ടെത്തി മിനിയുടെ അമ്മ ശാസനയുടെ സ്വരത്തിൽ അവളോട് ചോദിച്ചു 'എവിടുന്നു കിട്ടി നാണയം കാബൂളിവാല എനിക്ക് തന്നു എന്നായിരുന്നു മിനിയുടെ മറുപടി അവളുടെ അമ്മ ആക്രോശിച്ചു 'നീ എന്തിനാണ് അവനിൽ നിന്ന് അത് എടുത്തത് ' മിനി കരഞ്ഞുകൊണ്ട് മറുപടി പറഞ്ഞു 'ഞാൻ അത് ചോദിച്ചില്ല അവൻ അത് സ്വന്തമായി തന്നു ' മിനിയെ രക്ഷിക്കാൻ ഞാൻ ഇറങ്ങി അവളെ നടക്കാൻ കൊണ്ടുപോയി അതിനാൽ ഈ ഉദ്ധരണിയിൽ നിന്ന് വ്യക്തമാകുന്നത് വ്യാപാരി ആ നാണയം ചെറിയ കുട്ടിക്ക് തിരികെ നൽകിയെന്നാണ് എന്തുകൊണ്ടാണ് അവൻ അത് ചെയ്തത് വീണ്ടും പിന്നീട് വിശദീകരിക്കുന്ന ഒരു രഹസ്യം ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ അവൻ ഈ വീട്ടിൽ വന്ന് പെൺകുട്ടിയെ സന്ദർശിക്കുന്നത് സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൊണ്ടല്ല കുടുംബപരമായ ആഗ്രഹങ്ങൾ കൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിലെ സ്വന്തം കുട്ടിയോട് കൂടുതൽ സാമ്യമുള്ള കുട്ടിയുമായി ഒരു തരത്തിലുള്ള ബന്ധം പുലർത്താനുള്ള കുടുംബ ആഗ്രഹങ്ങൾ കാരണം അതിനാൽ അവൻ മിനിക്ക് നാണയം തിരികെ നൽകുന്നു അവൾ നിഷ്കളങ്കമായി അവനിൽ നിന്ന് നാണയം എടുക്കുന്നു മിനിയുടെ അമ്മ വളരെ അസ്വസ്ഥയാണ് കൂടാതെ ഒരു അമ്മയും ഒരു ചെറിയ മകളും തമ്മിലുള്ള അന്വേഷണത്തിന്റെ സന്ദർഭത്തിൽ ഒരു മുഴുവൻ കോലാഹലം എന്ന ഈ പ്രത്യേക വാചകം ഉപയോഗിക്കുന്നത് വളരെ രസകരമാണ് സാധാരണയായി മുതിർന്നവരിൽ കോലാഹലങ്ങൾ ഉണ്ടാകാറുണ്ട് ശബ്ദായമാനമായ തർക്കമോ വഴക്കോ ഉണ്ടാകാറുണ്ട് കോലാഹലങ്ങൾ എന്ന വാക്കിന്റെ അർത്ഥം അതാണ് ഒരു വീട്ടിലെ ഒരു ചെറിയ പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ ശബ്ദായമാനമായ തർക്കം അല്ലെങ്കിൽ വഴക്ക് ഈ പ്രത്യേക വാക്ക് ഉപയോഗിക്കുന്നത് വളരെ രസകരമാണ് വീണ്ടും വളരെ രസകരമായ മറ്റ് വാക്കുകൾ ഇവിടെ അധിക്ഷേപിക്കുക ശാസിക്കുക എന്നിവയാണ് അതിനാൽ നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം ശാസിക്കുക എന്നതിനർത്ഥം ഒരാളോട് ദേഷ്യത്തോടെ സംസാരിക്കുക കാരണം അവർ പറഞ്ഞതോ ചെയ്തതോ നിങ്ങൾ അംഗീകരിക്കുന്നില്ല അങ്ങനെയെങ്കിൽ കഥയുടെ ആഖ്യാതാവായ എഴുത്തുകാരന്റെ യുവഭാര്യയായ മിനിയുടെ അമ്മയുടെ ഭാഗത്ത് ശരിക്കും ദേഷ്യമുണ്ട് അധിക്ഷേപിക്കുക എന്ന വാക്കിന്റെ അർത്ഥമെന്താണെന്ന് നമുക്ക് വീണ്ടും നോക്കാം അധിക്ഷേപിക്കുക അർത്ഥമാക്കുന്നത് ആരെങ്കിലും മോശമായി പെരുമാറിയതിനാൽ കഠിനമായി പരുഷമായി സംസാരിക്കുക എന്നാണ് അപരിചിതനും പഴക്കച്ചവടക്കാരനും ആ സാമൂഹിക ചുറ്റുപാടിന് അന്യനും ആയ കാബൂളിവാലയിൽ നിന്ന് നാണയം വാങ്ങി മകൾ മോശമായി പെരുമാറിയെന്ന് അമ്മ കരുതുന്നു കാരണം ഇയാൾ കാബൂളിൽ നിന്നാണ് ഉണക്കമുന്തിരിയും പരിപ്പും ഷാളുകളും മറ്റും വിൽക്കാൻ കൽക്കട്ട സന്ദർശിക്കുന്നു അതുകൊണ്ട് ഒരു പുരുഷനിൽ നിന്ന് ഒരു നാണയം വാങ്ങുക അതും ഒരു അപരിചിതൻ എന്നത് ഗുരുതരമായ തെറ്റാണ് കുറഞ്ഞത് അമ്മ ചിന്തിക്കുന്നത് അതാണ് ഇവിടെ നടക്കുന്ന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ മിനിയുടെ അച്ഛൻ ഇവിടെ ഒരു വാക്കും പറയുന്നില്ല എന്നത് വളരെ രസകരമാണ് കൊച്ചു പെൺകുട്ടിക്കും അമ്മയ്ക്കും ഇടയിൽ അവൻ ഒരക്ഷരം പോലും പറഞ്ഞില്ല പകരം അവൻ ചെയ്യുന്നത് മിനിയെ രക്ഷിക്കാൻ ചുവടുവെക്കുന്നു അവൻ അവളെ നടക്കാൻ പുറത്തേക്ക് കൊണ്ടുപോകുന്നു അവൻ ഈ കൊച്ചു പെൺകുട്ടിയെ ആ അവസ്ഥയിൽ നിന്ന് പുറത്തെടുക്കുന്നു അക്ഷരാർത്ഥത്തിൽ അവൻ അവളെ വീട്ടിൽ നിന്ന് നടക്കാൻ കൊണ്ടുവരുന്നു അതിനാൽ കുട്ടിയും അമ്മയും തമ്മിൽ നടക്കുന്ന ഈ ഗൌരവമേറിയ സംഭാഷണത്തിൽ ഈ സംഭാവനയുടെ അഭാവത്തെക്കുറിച്ച് നാം അത്ഭുതപ്പെടേണ്ടതുണ്ട് ഇവിടെ ചെറിയ മകളോട് വളരെ കർക്കശമായി പെരുമാറുന്ന യുവ അമ്മയെക്കുറിച്ച് നമ്മൾ പറയുന്ന ഒരേയൊരു സന്ദർഭമല്ല ഇത് ചെറുകഥയുടെ ആദ്യ ഖണ്ഡിക നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ അച്ഛൻ പറയുന്നു പലപ്പോഴും അവളുടെ അമ്മ അവളെ മിണ്ടാതിരിക്കാൻ ശകാരിക്കും പക്ഷേ എനിക്കൊരിക്കലും അത് ചെയ്യാൻ കഴിയില്ല അതിനാൽ മിനിയുടെ അച്ഛനും അമ്മയും തമ്മിൽ ഒരു വൈരുദ്ധ്യമുണ്ട് ഒന്ന് വളരെ കഠിനമാണ് മറ്റൊന്ന് ദാക്ഷിണ്യമാണ് എന്തിനാണ് മിനിയെ ശകാരിക്കുന്നത് അവൾ ഒരു ചെറിയ നല്ല പെൺകുട്ടിയെപ്പോലെ മിണ്ടാതിരിക്കാൻ ആഗ്രഹിക്കുന്നു പെൺകുട്ടികൾ വളരെ സംസാരശേഷിയുള്ളവരായിരിക്കരുത് അത് അവരുടെ സ്വഭാവത്തിന് വളരെ മോശമാണ് അതിനാൽ അമ്മ അവളെ ശിക്ഷിക്കുന്നു അവൾ സാമൂഹികമായും സാംസ്കാരികമായും ചെറിയ കുട്ടിയെ ശിക്ഷിക്കുന്നു പിന്നെ അച്ഛൻ അതിന് സമ്മതിക്കില്ല ഇപ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മിനി എന്ന കൊച്ചുകുട്ടിയെ വളർത്തിയതിന്റെ പശ്ചാത്തലത്തിൽ രണ്ട് മാതാപിതാക്കളും തമ്മിൽ ഒരു സംഭാഷണവും നടക്കുന്നില്ല അതിനാൽ മകളുമായോ ഭാര്യയുമായോ സംഭാഷണത്തിന് പകരം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അവൻ അവളെ ആ പരിതസ്ഥിതിയിൽ നിന്ന് പുറത്താക്കുന്നു അത് ഒരു നടത്തത്തിൽ കലാശിക്കുന്നു അതിൽ അവർ രണ്ടുപേരും പങ്കെടുക്കുന്നു അച്ഛനും മകളും പങ്കെടുക്കുന്നു അമ്മയെ ആ സ്ഥലത്ത് നിന്ന് ഒഴിവാക്കുന്നു അതും ശ്രദ്ധിക്കുന്നത് വളരെ രസകരമാണ് ഈ നിർണ്ണായക ആശയങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ കുടുംബത്തിൽ ഈ വീടിനുള്ളിൽ പ്രവർത്തനരഹിതമായ ഒരു ഗാർഹികത ഉണ്ടെന്ന് ഒരാൾക്ക് സുരക്ഷിതമായി ഊഹിക്കാം കുടുംബാംഗങ്ങൾക്കിടയിൽ ആരോഗ്യകരമായ ഒരു ഡയലോഗോ സംഭാഷണമോ നടക്കുന്നതായി തോന്നുന്നില്ല ഒരു രക്ഷിതാവ് വളരെ ബുദ്ധിമാനാണ് മറ്റേ രക്ഷിതാവ് തികച്ചും വിപരീതമാണ് കൂടാതെ കുടുംബത്തിലെ മൂന്ന് അംഗങ്ങളും ഒത്തുചേരുകയും അടുപ്പം കൈമാറുകയും ചെയ്യുന്ന ഒരു സുഖപ്രദമായ ഗാർഹിക അന്തരീക്ഷത്തിന്റെ ഒരു കാഴ്ചയും കഥ നൽകുന്നില്ല അതിനാൽ ഇത് പ്രവർത്തനരഹിതമായ ഗാർഹികതയാണെന്ന് ചുരുക്കി പറയാം കാബൂളിവാല എന്ന കഥയിൽ പരാമർശിച്ചിരിക്കുന്ന പ്രവർത്തനരഹിതമായ ഗാർഹികത ഇത് മാത്രമല്ല പഴക്കച്ചവടക്കാരന്റെ പ്രവർത്തനരഹിതമായ ഗാർഹികതയെയും നാം ഓർക്കണം വീട്ടിൽ നിന്ന് ഇറങ്ങിയ കാബൂളിവാല കുടുംബത്തെ ഉപേക്ഷിച്ചു അഞ്ച് വയസ്സുള്ള പെൺകുട്ടി സ്വതന്ത്രയാണ് അവൾക്ക് എവിടെ വേണമെങ്കിലും നടക്കാൻ സ്വാതന്ത്ര്യമുണ്ട് അവൾക്ക് അവളുടെ പിതാവിന്റെ സ്റ്റുഡിയോയിലേക്കോ പഠനത്തിലേക്കോ നടക്കാൻ സ്വാതന്ത്ര്യമുണ്ട് വീട്ടുജോലിക്കാരനെക്കുറിച്ച് അല്ലെങ്കിൽ അവളുടെ കുടുംബത്തെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയാൻ അവൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അവളുടെ വീട്ടിൽ അവൾക്ക് കാവൽക്കാരനുമായി സൌഹൃദമുണ്ട് ഭോലയുമായും ഒരുപക്ഷേ അവൻ ഒരു വീട്ടുജോലിക്കാരനാണ് കൂടാതെ കുടുംബത്തിലെ കുതിരകളെ പരിപാലിക്കുന്ന നബിയുമായും അവൾ ചങ്ങാത്തം കൂടുന്നു So this five year old girl is very free to enjoy herself and there are no restrictions placed on her behavior and her comments except occasionally by the mother അതിനാൽ ഈ അഞ്ച് വയസ്സുകാരിക്ക് സ്വയം ആസ്വദിക്കാൻ വളരെ സ്വാതന്ത്ര്യമുണ്ട് അവളുടെ പെരുമാറ്റത്തിനും അവളുടെ അഭിപ്രായങ്ങൾക്കും ഇടയ്ക്കിടെ അമ്മയല്ലാതെ യാതൊരു നിയന്ത്രണവുമില്ല ഇപ്പോൾ ഈ ചെറിയ പെൺകുട്ടി വളരെ വേഗം അപ്രത്യക്ഷമാകുന്നു ആ തിരോധാനം എങ്ങനെ സംഭവിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം ഇത് ഞാൻ തിരുത്തി പറയണം ഈ കൊച്ചു പെൺകുട്ടി വീട്ടിൽ ആസ്വദിച്ച സ്വാതന്ത്ര്യവും വ്യത്യസ്തമായ ഒരു അന്തരീക്ഷം എടുക്കുന്നു അവളുടെ മനോഭാവത്തിലെ മാറ്റത്തെക്കുറിച്ച് അവളുടെ സ്വന്തം പിതാവിന് പറയേണ്ടി വന്ന അഭിപ്രായമാണിത് അതിനാൽ കാബൂളിവാല അറസ്റ്റിലാവുകയും മിനിയുടെ ഈ ഗാർഹിക ഇടം വിട്ടുപോകുകയും ചെയ്തുകഴിഞ്ഞാൽ മിനിയും വളർന്നുവരുന്നു കൂടാതെ കാബൂളിവാല കുറച്ച് വർഷങ്ങളായി നിശബ്ദനായി ഏകദേശം 8 വർഷം ആ കാലയളവിൽ മിനി അവളുടെ ബാലിശമായ മനോഭാവത്തെ മറികടക്കുന്നു അവൾ പ്രായപൂർത്തിയായവളായി മാറുന്നു അവളുടെ സ്വഭാവത്തെക്കുറിച്ച് പിതാവിന് വളരെ രസകരമായ ഈ വിധിയുണ്ട് "മിനിയുടെ അസ്ഥിരമായ ചെറിയ ഹൃദയം അവളുടെ അച്ഛനെപ്പോലും ലജ്ജിപ്പിക്കുന്നതായിരുന്നു അവൾ തന്റെ പഴയ സുഹൃത്തിനെ എളുപ്പത്തിൽ മറന്നു പുതിയ ഒരാളെ നബിയിൽ കണ്ടെത്തി പിന്നീട് അവൾ വളർന്നുകൊണ്ടിരുന്നപ്പോൾ പ്രായമായ തന്റെ എല്ലാ പുരുഷ സുഹൃത്തുക്കളെയും ഒന്നിനുപുറകെ ഒന്നായി സ്വന്തം പ്രായത്തിലുള്ള പെൺകുട്ടികളെ അവൾ മാറ്റി അവളുടെ പിതാവിന്റെ സ്റ്റുഡിയോയിൽ അവളെ കാണാൻ കഴിഞ്ഞില്ല ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ അവളുമായുള്ള എല്ലാ സൌഹൃദവും ഏതാണ്ട് അവസാനിപ്പിച്ചിരുന്നു അങ്ങനെ 5 വയസ്സുള്ള പെൺകുട്ടി പോയി അവൾ പോയിക്കഴിഞ്ഞാൽ അവളെ സ്ഥിരതയില്ലാത്തവൾ എന്ന് വിളിക്കുന്നു കാരണം അവൾ ഉണ്ടാക്കിയ സൌഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ അവളുടെ പിതാവിന് പകരം സ്വന്തം പ്രായത്തിലുള്ള പെൺകുട്ടികളെപ്പോലും കൊണ്ടുവന്നു അങ്ങനെ അവളുമായുള്ള സൌഹൃദമെല്ലാം ഏതാണ്ട് അവസാനിപ്പിച്ചതായി അച്ഛൻ പറയുന്നു നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഇവയാണ് ഒന്നാമതായി മിനി എന്തിനാണ് തന്റെ എല്ലാ പുരുഷ സുഹൃത്തുക്കളെയും ഉപേക്ഷിക്കുന്നത് എന്താണ് അവളെ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഈ പ്രത്യേക ചെറുകഥയുടെ സാമൂഹിക പശ്ചാത്തലം അത് എഴുതിയ കാലഘട്ടം സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും സൃഷ്ടിക്കപ്പെട്ടതും നിർമ്മിക്കപ്പെട്ടതും ശക്തിപ്പെടുത്തിയതുമായ ലിംഗ സ്വത്വങ്ങൾ എന്നിവയെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ ഓർക്കണം ഈ പ്രത്യേക കഥയുടെ കോമ്പസിനുള്ളിൽ പോലും അമ്മ പലപ്പോഴും നിശബ്ദത പാലിക്കാൻ അവളെ ശാസിക്കുന്നു വിദേശത്ത് നിന്നുള്ള പഴം വിൽപനക്കാരനായ പുരുഷനുമായുള്ള മകളുടെ സൌഹൃദത്തെക്കുറിച്ച് അവൾ ഭയപ്പെടുന്നു അതിനാൽ ഈ ചെറിയ പസിലുകളിൽ നിന്ന് ഒരു ലോകം കെട്ടിപ്പടുക്കുന്നതിനുള്ള ചെറിയ സൂചനകളാണ് ഇവയെല്ലാം ഒപ്പം മകൾക്ക് അവളുടെ ചുറ്റുമുള്ള സ്ത്രീകളിൽ നിന്ന് നിരന്തരം ശിക്ഷണം ലഭിക്കുന്നുവെന്ന് മനസ്സിലാക്കുക അതുകൊണ്ടായിരിക്കാം അവൾ അത് നൽകിയത് അവളുടെ എല്ലാ പുരുഷ കൂട്ടാളികളും അതിനാൽ കഥയുടെ ഉപവാചകത്തിൽ ഒരുതരം സാമൂഹിക അച്ചടക്കം നടക്കുന്നുണ്ട് അത് പിതാവിന് അറിയില്ല ഒന്നുകിൽ അബോധാവസ്ഥയിൽ നമുക്കറിയില്ല പക്ഷേ അദ്ദേഹത്തിന്റെ മകളുടെ ലോകത്ത് നടക്കുന്ന ഈ പാതകളെല്ലാം അദ്ദേഹം അറിഞ്ഞതായി തോന്നുന്നില്ല അതിനാൽ പുരുഷന്മാരുമായുള്ള ബന്ധം നിരുത്സാഹപ്പെടുത്തുന്നു മിനിയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന സുരക്ഷിതമായ അനുമാനമാണ് അതിനാലാണ് അവൾ തന്റെ സമൂഹത്തിലെ പുരുഷന്മാരുമായുള്ള എല്ലാ സൌഹൃദങ്ങളും ഉപേക്ഷിക്കുന്നത് പകരം അവൾ സാധാരണമായതും അവൾക്ക് സുരക്ഷിതമായ ഇടങ്ങളുമായ സ്ത്രീ സൌഹൃദങ്ങൾക്കായി പോകുന്നു വീട്ടിലെ സ്ത്രീകളെക്കുറിച്ചും നമുക്ക് ഒന്നുകൂടി നോക്കേണ്ടതുണ്ട് നിരവധി സ്ത്രീകൾ ഉണ്ട് പക്ഷേ അവരുടെ പേര് പരാമർശിക്കുന്നില്ല വളരെ രസകരമായ ഈ പ്രത്യേക വസ്തുത നാം ഓർക്കുകയാണെങ്കിൽ മിനിയുടെ അമ്മയ്ക്ക് പോലും പേര് ലഭിക്കില്ല അതിനാൽ കഥയുടെ എഴുത്തുകാരനും ആഖ്യാതാവുമായ ഗൃഹനാഥന്റെ പെരുമാറ്റത്തെ വീട്ടിലെ സ്ത്രീകൾ എതിർക്കുന്നു കഥയുടെ അവസാനത്തിൽ നിന്നാണ് ഈ ഉദ്ധരണി എടുത്തത് പിതാവ് അധികാരം പ്രയോഗിക്കുമ്പോൾ വീട്ടിലെവിടെയോ നിന്ന് മിനിയെ വിളിക്കുന്നു കല്യാണത്തിന് ഒരുങ്ങുന്നു സൌഹൃദ സന്ദർശനത്തിനായി ജയിലിൽ നിന്ന് തിരിച്ചെത്തിയ അവളുടെ പഴയ സുഹൃത്ത് കാബൂളിവാലയെ കാണണമെന്ന് ആഗ്രഹിച്ചതിനാൽ അവൻ അവളെ വിളിക്കുന്നു അതിനാൽ വിവാഹത്തിന് മുമ്പ് വധുവിനെ ഏതെങ്കിലും അപരിചിതനെ കാണിക്കാൻ വിളിച്ചതിനെ വീട്ടിലെ സ്ത്രീകൾ എതിർത്തു പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല അവളുടെ വിവാഹ വസ്ത്രത്തിലും ആചാരപരമായ മേക്കപ്പിലും മിനി അകത്തളങ്ങളിൽ നിന്ന് പുറത്തുവന്ന് എന്റെ അരികിൽ ശാന്തമായി നിന്നു ഈ സെഷനിലെ ഈ ഉദ്ധരണിയുടെ ഈ വായനയിൽ എനിക്ക് രസകരമായി തോന്നുന്നത് ഇതാണ് കാരണം സ്ത്രീകൾ ഉന്നയിക്കുന്ന എതിർപ്പുകളും മിനിയുടെ ചങ്കൂറ്റവും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്ന് ഞാൻ വാദിക്കും കാരണം ഈ നിലപാടുകൾ പൊതുമണ്ഡലത്തിൽ ഇടപെടാനുള്ള സ്ത്രീകളുടെ വിസമ്മതവുമായി ബന്ധപ്പെട്ടതാണ് പിന്നെ ഇവിടുത്തെ പൊതുമണ്ഡലം എന്നത് ഈ ഇടം പഠനസ്ഥലം അച്ഛൻ എഴുത്ത് നടത്തുന്ന ഇടം മിനിയെ കാണാൻ സന്ദർശകർ കാത്തിരിക്കുന്ന ഇടം എന്നിവയാണ് അതിനാൽ അവർക്ക് ഇടപഴകാൻ വിസമ്മതിക്കാം സ്ത്രീകൾക്ക് പൊതുരംഗത്ത് ഇടപെടാൻ വിസമ്മതിക്കാം ഒന്നുകിൽ അതിനെ സ്വമേധയാ എതിർത്തു കൊണ്ട് അല്ലെങ്കിൽ വളരെ ലജ്ജാശീലം കൊണ്ട് ഒന്നുകിൽ അവ എതിർപ്പുകളാണ് ഒന്നുകിൽ തങ്ങളുടേതല്ലെന്ന് അവർ കരുതുന്ന ഒരു മണ്ഡലത്തിൽ ഏർപ്പെടാനുള്ള വിസമ്മതമാണ് ഇനി കാബൂളിവാല അപരിചിതൻ മറ്റേയാൾ അസാധാരണ വിദേശി സ്ത്രീകൾ എന്നിവ തമ്മിലുള്ള സാമ്യം നോക്കാം ഈ രണ്ട് വിഭാഗങ്ങളും എങ്ങനെ ഏതൊക്കെ തരത്തിൽ സമാനമാണ് അല്ലെങ്കിൽ പരസ്പരം പ്രതിഫലിപ്പിക്കുന്നു എന്ന് നോക്കാം ഇനി ജയിൽ ഹൌസിന്റെയും ഭർതൃ കൂട്ടരുടെയും ഈ ആശയം നോക്കുകയാണെങ്കിൽ ഈ സ്ഥലങ്ങളിൽ താമസിക്കുന്നയാൾക്കുള്ള സ്വാതന്ത്ര്യത്തെ അവർ വളരെ പരിമിതപ്പെടുത്തുന്നു എന്ന അർത്ഥത്തിൽ ഇരുവർക്കും ഒരു സാമ്യമുണ്ട് ജയിൽ തടവുകാരനെ അതിന്റെ സ്ഥലത്ത് നിന്ന് മാറാൻ അനുവദിക്കുന്നില്ല കൂടാതെ ഭർതൃ ഇടം വധുവിനെ മതിയായ അനുമതിയില്ലാതെ അതിൽ നിന്ന് പുറത്തുകടക്കാൻ അനുവദിക്കുന്നില്ല അതിനാൽ ഈ അർത്ഥത്തിൽ ജയിലും ഭർതൃഗൃഹവും തമ്മിൽ ഒരു സമാന്തരമുണ്ട് പ്രത്യേകിച്ച് താഴ്ന്നതോ ദുർബലമായതോ ആയ ഒരു താമസക്കാരനുമായി ബന്ധപ്പെട്ട് അതിനാൽ ഇവിടെ ഒരു തീമാറ്റിക് അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു സമാന്തരമുണ്ട് ഇപ്പോൾ ഈ സമാന്തര മനസ്സുണ്ടെങ്കിൽ കാബൂളിവാലയും വീട്ടിലെ സ്ത്രീകളും ഒരുപോലെ ശക്തിയില്ലാത്തവരാണ് കാബൂളിവാല ജയിലിൽ പോകുന്നു അയാൾ ജയിൽ ഹൌസിലെ ഉന്നത അധികാരികളുടെ അധികാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു കൂടാതെ എഴുത്തുകാരന്റെയും കഥാകാരിയുടെയും വീട്ടിലെ സ്ത്രീകളും ഗൃഹനാഥയുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങേണ്ടി വരും ഈ കേസിൽ മിനിയുടെ പിതാവാണ് അതിനാൽ ഈ രണ്ട് വിഭാഗം ആളുകൾക്കിടയിൽ ചില രസകരമായ തീമാറ്റിക് അസോസിയേഷനുകൾ ഉണ്ട് ഇപ്പോൾ കാബൂളിവാലയുടെ പ്രൊഫഷണൽ പശ്ചാത്തലം നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം ധാരാളം ചലനാത്മകത ഉൾക്കൊള്ളുന്ന ഒരു വ്യാപാരം നടത്തുന്നു ഇത് ഒരു പ്രഭുവും എഴുത്തുകാരനുമായ മിനിയുടെ പിതാവിന്റെ സ്ഥിരമായ ജീവിതശൈലിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഒരു പ്രഭുവും എഴുത്തുകാരനും വളരെ മൊബൈൽ ആയിരിക്കണമെന്നില്ല അവർ ചെയ്യേണ്ടത് ഒരു പ്രത്യേക സ്ഥലത്ത് ഇരുന്ന് കണക്കുകൾ നോക്കുക അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ മേൽനോട്ടങ്ങൾ എഴുത്തുകാരന്റെ കാര്യത്തിൽ അത് വളരെ ഒറ്റപ്പെട്ട സ്ഥലത്തിൽ കുറച്ച് സമയത്തിനുള്ളിൽ പ്രവർത്തിക്കുന്നു അതിനാൽ ഈ തൊഴിലുകൾക്ക് ഐഡന്റിറ്റി രൂപീകരണത്തിന് ചില അനന്തരഫലങ്ങളുണ്ട് കൂടാതെ തൊഴിലിന്റെ സ്വഭാവവും ഗാർഹിക സ്വഭാവത്തെ ബാധിക്കുന്നു കാബൂളിവാലയ്ക്ക് പ്രവർത്തനരഹിതമായ ഒരു ഗാർഹികതയുണ്ടെന്ന് ഞാൻ കുറച്ച് മുമ്പ് സൂചിപ്പിച്ചു കാരണം അവന്റെ തൊഴിലിന്റെ സ്വഭാവം അവന്റെ വീടിന് പുറത്ത് സൂക്ഷിക്കുകയും പുറത്തുപോകുകയും ചെയ്യുന്നു അതിനാൽ വീട്ടിനുള്ളിലെ സന്തോഷകരമായ ഗാർഹികതയിലേക്ക് അദ്ദേഹത്തിന് സംഭാവന നൽകാൻ കഴിയില്ല അതിനാൽ തൊഴിൽ കുടുംബജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന രീതി കാണുന്നത് രസകരമാണ് ഈ ലേഖകനും ഈ കഥാകാരനും വീടിന് പുറത്തേക്കും നാട്ടിന് പുറത്തേക്കും ഒരുപാട് യാത്രകൾ ചെയ്യാനും ആഗ്രഹിക്കുന്നുവെങ്കിലും അദ്ദേഹം അത് ചെയ്യുന്നില്ല എന്ന വസ്തുതയും നാം ഓർക്കുന്നുവെങ്കിൽ ഒരുപക്ഷേ അത് അടുത്തറിയാൻ പ്രേരണയാകാം അയാൾക്ക് തന്റെ ചെറിയ മകളുമായി ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിരമായ ഗൃഹാതുരത്വം നടത്താം അതിനാൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആ കാര്യം ചുരുക്കി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പിതാവ് കഥാകൃത്ത് കാബൂളിവാല ഇരുവർക്കും പ്രവർത്തനരഹിതമായ ഗൃഹാതുരത്വം ഉണ്ടെങ്കിലും രചയിതാവിന്ന് കാബൂളിവാലയേക്കാൾ മികച്ച ഗൃഹാതുരത്വം കഥയിലുണ്ട് തന്റെ തൊഴിലിന്റെ സ്വഭാവം കാരണം മകളെ കാണാൻ പ്രയാസമാണ് ഇത് അവനെ വീടും രാജ്യവും വിട്ട് യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു ഇപ്പോൾ ലിംഗഭേദത്തെക്കുറിച്ചുള്ള രസകരമായ ഒരു വിമർശനം ഞാൻ വായിക്കട്ടെ മാലാശ്രീ ലാൽ പറയുന്നതനുസരിച്ച് പുരുഷാധിപത്യത്തിൻ കീഴിലും ബംഗാളിലെ സാംസ്കാരിക ചരിത്രത്തിലും ഒരു പെൺകുട്ടിയുടെ വൈവാഹിക വീട്ടിലേക്കുള്ള പ്രവേശനം സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയും വീട്ടുജോലികൾക്ക് കീഴടങ്ങുകയും ചെയ്യുന്നു ഇത് ഒരുതരം തടവറയാണ് രസകരമായ ഒരു വാക്ക് അങ്ങനെ ചെയ്യുന്നതിന് അനുവദിച്ചാൽ മാത്രമേ പെൺകുട്ടിക്ക് ഇടയ്ക്കിടെ പുറത്തുവരാൻ കഴിയൂ അതുകൊണ്ട് ബംഗാളിലെ സാമൂഹിക ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ഈ അഭിപ്രായം കാബൂളിവാല എന്ന കഥയിൽ പരാമർശിച്ചിരിക്കുന്ന ജയിൽ വീടിന്റെ ചിത്രമാണ് ഉടനടി മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് അതിനാൽ അവിടെ ഞാൻ പറഞ്ഞതുപോലെ ഈ ആഴ്ച നമ്മൾ വായിച്ച കഥയുമായി ബന്ധപ്പെട്ട് ഗാർഹിക ഇടവും ജയിലിന്റെ ഇടവും തമ്മിൽ സമാന്തരങ്ങളുണ്ട് അതിനാൽ പുരുഷ കൂട്ടാളികളുമായി പങ്കിട്ട സ്ഥലത്ത് നിന്ന് മിനി പിൻവാങ്ങുകയാണെങ്കിൽ അത് അവളുടെ ഭർതൃ വീട്ടിൽ അവളുടെ ഗാർഹിക ജീവിതത്തിന് തയ്യാറെടുക്കുന്ന ഒരു പിൻവലിക്കലാണ് അതിനാൽ അവളുടെ പുരുഷ സഹയാത്രികരുമായി കൂടുതൽ ഇടപഴകാൻ അവൾ വിസമ്മതിക്കുന്നതിന്റെ രസകരമായ കാര്യം ഇതാണ് കാരണം അവളുടെ ഭാവി ഗൃഹാതുരത്വത്തിന് അവളുടെ ഭർതൃ വീട്ടിൽ ഉചിതമായ പരിശീലനം ലഭിക്കാൻ അവൾ ആഗ്രഹിക്കുന്നു അതിനാൽ അവളുടെ അമ്മ ശരിക്കും അച്ചടക്കമുള്ള അമ്മയും വീട്ടിലെ മറ്റ് സ്ത്രീകളും അവളെ ഈ പാതയിൽ നയിക്കുന്നുവെന്ന് നമ്മൾ അനുമാനിക്കേണ്ടതുണ്ട് വിവാഹശേഷം അവൾ പ്രവേശിക്കാൻ പോകുന്ന വീട്ടിലേക്കുള്ള തയ്യാറെടുപ്പിലാണ് ഇനി കഥയിൽ ലിംഗഭേദവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പാർശ്വവൽക്കരണത്തിന്റെ ഘടകം സംഗ്രഹിക്കാം കഥയിൽ മരിച്ചുപോയ ഒരു ആദ്യഭാര്യയുണ്ടെന്ന് ഓർക്കണം കാരണം ആദ്യഭാര്യ മരിച്ചാൽ മാത്രമേ പിതാവ് മറ്റൊരു വിവാഹം കഴിച്ചുവെന്നും മരിച്ച ഭാര്യയുടെ സഹോദരിയായ മറ്റൊരു ഭാര്യയെ സ്വീകരിച്ചെന്നും അനുമാനിക്കാം ഈ സ്ത്രീയെക്കുറിച്ച് വേണ്ടത്ര വിവരങ്ങൾ അറിയാത്തതിനാൽ രണ്ടാമത്തെ ഭാര്യ വലിയൊരളവിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നതും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും മിനിയെക്കുറിച്ചോ അവളുടെ ഭയമോ മറ്റുള്ളവരോ പറയുന്ന വിമർശനങ്ങൾ മാത്രമാണ് നമുക്ക് അറിയുന്നത് അതിനാൽ മിനിയുടെ പിതാവിന്റെ മുൻ ഭാര്യാ സഹോദരിയായ യുവഭാര്യയുടെ ആരോഗ്യകരമായ ചിത്രം നമ്മൾക്ക് ലഭിക്കുന്നില്ല എന്നും കൂടെ കൊണ്ടുപോകുന്ന ഒരു പേപ്പറിൽ ഒരു മുദ്ര മാത്രമായി കാബൂളിവാലയുടെ മകൾ അവശേഷിക്കുന്നു എന്നതും നാം ഓർക്കേണ്ടതുണ്ട് അതിനാൽ ആ മകളും മാംസളമായിട്ടില്ല കഥാ രംഗങ്ങളിൽ അവളെ മാംസളമായി നമുക്ക് കാണാൻ കഴിയില്ല വീണ്ടും കാബൂളിവാലയുടെ ഭാര്യയെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട രസകരമായ വസ്തുത അതിനാൽ അവൻ പരാമർശിക്കുന്നത് ഈ കൊച്ചു പെൺകുട്ടിയായ മിനിയുമായുള്ള ബന്ധത്തിലൂടെ താൻ ഉപേക്ഷിച്ചുപോയ മകളെയാണ് ഇപ്പോൾ ടാഗോർ തന്റെ ഫിക്ഷനിലൂടെ നൽകുന്ന സന്ദേശം നമുക്ക് പെട്ടെന്ന് നോക്കാം ഈ ഉദ്ധരണിയിലെ വളരെ രസകരമായ ഒരു ആശയമാണ് നമുക്ക് സൂക്ഷ്മമായി നോക്കാം "നമുക്ക് നമ്മളുടെ സാമൂഹിക ശരീരം ഉണ്ട് അതിൽ നമ്മൾ മറ്റ് മനുഷ്യരുമായി ബന്ധം പുലർത്തുന്നു അതിന്റെ വ്യക്തമായ ആഗ്രഹങ്ങൾ നമ്മുടെ സ്വാർത്ഥ പ്രേരണകളുമായി ബന്ധപ്പെട്ടവയാണ് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ലഭിക്കാനും നൽകേണ്ടതിനേക്കാൾ കുറച്ച് പണം നൽകാനും നമ്മൾ ആഗ്രഹിക്കുന്നു എന്നാൽ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ആഴത്തിൽ അന്തർലീനമായ മറ്റൊരു ആഗ്രഹമുണ്ട് അത് നമ്മുടെ സമൂഹത്തിന്റെ ക്ഷേമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സാമൂഹിക ജ്ഞാനമുള്ള ഒരാൾക്ക് ഇത് അറിയാം മറ്റുള്ളവരുടെ നന്മയ്ക്കുവേണ്ടിയുള്ള ഈ മറഞ്ഞിരിക്കുന്ന ആഗ്രഹത്തിന്റെ ആധിപത്യത്തിൻകീഴിൽ വ്യക്തിപരമായ ആനന്ദം സുഖം സ്വാതന്ത്ര്യം എന്നിവയെക്കുറിച്ചുള്ള തന്റെ എല്ലാ ആർദ്രമായ ആഗ്രഹങ്ങളും കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അതിനാൽ ടാഗോറിന്റെ സന്ദേശം വളരെ വ്യക്തമാണ് നമ്മിൽ പലർക്കും സ്വാർത്ഥ പ്രേരണകളുണ്ടെന്ന് അദ്ദേഹം പറയുന്നു തൃപ്തിപ്പെടുത്താൻ നമ്മൾക്ക് സ്വന്തം സന്തോഷമുണ്ട് നാം നമ്മുടെ സ്വന്തം സുഖം നേടാൻ ശ്രമിക്കുന്നു നമ്മുടെ സ്വന്തം സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ആകുലപ്പെടുന്നത് എന്നാൽ നമ്മുടെ സ്വന്തം ക്ഷേമത്തേക്കാൾ മറ്റുള്ളവരുടെ ക്ഷേമത്തിന് പ്രാധാന്യം നൽകിയാൽ നമുക്ക് കൂടുതൽ നന്മ നേടാൻ കഴിയും അതാണ് അദ്ദേഹം തന്റെ ഫിക്ഷനിലൂടെ ആശയവിനിമയം നടത്താൻ ശ്രമിക്കുന്ന സന്ദേശം ഇനി ഈ ആഴ്ച വായിച്ച കാബൂളിവാല എന്ന കഥയുമായി നമുക്ക് ഈ ആശയങ്ങളുടെ സംയോജനം നൽകാം അങ്ങനെയെങ്കിൽ പിതാവിന് തന്റെ സാമൂഹിക ജീവിതത്തിൽ നൽകുന്ന സന്ദേശം എന്താണ് പിതാവ് സ്വന്തത്തെക്കാൾ സമൂഹത്തിന്റെ ക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്നതായി നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം തന്റെ വ്യക്തിപരമായ ആഗ്രഹത്തേക്കാൾ സമൂഹത്തിന്റെ ക്ഷേമത്തിനാണ് മുൻഗണന നൽകുന്നത് അതിനാൽ അവൻ ചെയ്യുന്നത് കാബൂളിവാലയ്ക്ക് വാക്കാലുള്ള ആശ്വാസം മാത്രമല്ല സാമ്പത്തിക സഹായവും വാഗ്ദാനം ചെയ്യുന്നു മകൾക്ക് വേണ്ടി അദ്ദേഹം ആസൂത്രണം ചെയ്ത വിവാഹത്തിന്റെ ബജറ്റ് വെട്ടിക്കുറയ്ക്കുന്ന ഈ യഥാർത്ഥ സാമ്പത്തിക സഹായം അദ്ദേഹത്തിന് കൃത്യമായ പരിഗണനയുണ്ടെന്ന് കാണിക്കുന്നു ഈ കേസിൽ കാബൂളിവാല എന്ന അപരന്റെ ക്ഷേമം കാരണം വിവാഹ ആഘോഷങ്ങളുടെ ചില വശങ്ങൾ അദ്ദേഹം വെട്ടിക്കുറച്ചതായി നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഉദാഹരണത്തിന് കാബൂളിവാലയ്ക്ക് സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുന്നതിനായി സംഗീത പാർട്ടി ഒഴിവാക്കുന്നു അങ്ങനെ അയാൾക്ക് സ്വന്തം നാട്ടിലേക്ക് മടങ്ങാനും മിനിയെപ്പോലെ വളർന്ന മകളുമായി വീണ്ടും ബന്ധം സ്ഥാപിക്കാനും കഴിയും ഈ വീഡിയോ കണ്ടതിന് നന്ദി അടുത്ത സെഷനിൽ ഞാൻ നിങ്ങളെ കാണും